നമ്മൾ പറഞ്ഞതുപോലെ ഒരു അൽഗോരിത ത്തിന്റെ ടൈം എഫിഷ്യൻസി ഒരു നിശ്ചിത ഓർഡർ ഓഫ് മാഗ്നിറ്റിയൂഡ് വരെ മാത്രമേ അളക്കുകയുള്ളൂ ഒരു അൽഗോരിതത്തിന്റെ റണ്ണിങ് ടൈം കോൺസ്റ്റന്റുകൾ ഒഴിവാക്കി ഇൻപുട്ട് സൈസ് n ന്റെ ഒരു ഫങ്ഷൻ t ആയിട്ടാണ് കാണിക്കുക അതായത് t n ഉമായി n2 nlog അല്ലെങ്കിൽ 2n അനുപാതത്തിലാണ് എന്നുമാത്രമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക ഇനി നമ്മുടെ അടുത്തപടി അൽഗോരിതങ്ങളുടെ റണ്ണിങ് ടൈമുകൾ താരതമ്യം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ ഒരു വഴി കണ്ടെത്തുകയാണ് നമുക്ക് ഒരു അൽഗോരിതത്തിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യുഡും മറ്റൊരു അൽഗോരിതത്തിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യുഡും അറിയാമെങ്കിൽ അവയെ താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതിനായി ഫങ്ങ്ഷൻ t ന്റെ ഉയർന്നപരിധി എന്ന ആശയം നമുക്കെടുക്കാം ഇതിനെ ബിഗ് O എന്ന് സൂചിപ്പിക്കുന്നു ഈ ആശയമനുസരിച്ച് ഒരു പരിധിക്ക് ശേഷം g എന്ന ഫങ്ങ്ഷൻ t ന് മുകളിൽ പോകുന്നുവെങ്കിൽ g നെ t ന്റെ ഉയർന്നപരിധിയായി കണക്കാക്കാം ഇവിടെ gഎന്ന ഫങ്ങ്ഷൻ ഒരു ഓർഡർ ഓഫ് മാഗ്നിറ്റ്യുഡാണ് എന്ന് ഓർക്കുക g നുമേൽ സ്വാധീനമുള്ള എല്ലാ കോൺസ്റ്റന്റ് ഫാക്ടറുകളും നമ്മൾ അവഗണിച്ചതാണെങ്കിലും യഥാർത്ഥത്തിൽ g മാത്രമല്ല ഒരു കോൺസ്റ്റന്റ് തവണ g ആണ് t നേക്കാൾ വലുതാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ചില പരിധികൾക്കുമുകളിൽ ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് c യുടെ സ്വാധീനം ഉണ്ടെന്ന് കാണാം ആദ്യഭാഗങ്ങളിൽ അവഗണിക്കാമെങ്കിലും മേൽപരിധിക്കു മുകളിൽ t c തവണ g c times g നേക്കാൾ താഴെയാണ് ഈ സാഹചര്യത്തിൽ c g t ന്റെ ഉയർന്ന പരിധിയാണ് അതുകൊണ്ട് t നെ g ന്റെ big O big Og എന്ന് വിളിക്കാവുന്നതാണ് നമുക്ക് ഒരു ഉദാഹരണം കാണാം നമ്മുടെ ഫങ്ഷൻ t 100n5 ആണെന്ന് കരുതുക നമ്മൾ ഈ ഫങ്ഷൻ big O ആണെന്ന് പറയുന്നു ഇവിടെ n എന്നത് ഇൻപുട്ട് സൈസ്ആണെന്ന് നമുക്കറിയാം ഒരു പ്രോബ്ലെത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഇൻപുട്ട് സൈസ് ഒന്നാണ് പൂജ്യമോ നെഗറ്റീവോ ഇൻപുട്ട് സൈസ് ഉള്ള ഒരു പ്രോബ്ലെവും ഉണ്ടാവുകയില്ല അതായത് n ന്റെ മൂല്യം എപ്പോഴും ഒന്നോ ഒന്നിൽ കൂടുതലോ ആയിരിക്കും അതിനാൽ 100n5 എന്ന ഫങ്ഷനിൽ n ന്റെ വില 5 നേക്കാൾ കൂടുതലായി എടുക്കുകയാണെങ്കിൽ n ഈ മൂല്യത്തേക്കാൾ വലുതായിരിക്കും അതുകൊണ്ടു 100n5 100nn നേക്കാൾ ചെറുതോ തുല്യമോ ആണെന്ന് പറയാൻ സാധിക്കും നമുക്ക് ഇതിനെ ചുരുക്കി 101 എന്നെടുക്കാം n ന്റെ മൂല്യം 5 നേക്കാൾ കൂടുതലാണെങ്കിൽ 100n5 എന്നത് 101n നേക്കാൾ കുറവായിരിക്കും n ന്റെ കുറഞ്ഞ മൂല്യം 1 ആയതിനാൽ n2 n നേക്കാൾ വലുതായിരിക്കും അതിനാൽ 101n 101n2 നേക്കാൾ ചെറുതായിരിക്കും n0 യുടെ മൂല്യം 5 ഉം c യുടെ മൂല്യം 101 ഉം ആയി എടുത്താൽ n2 100n5 ന്റെ ഉയർന്നപരിധി ആണെന്ന് സ്ഥാപിക്കാൻ കഴിയും അതായത് 100n5 എന്നത് O ആണ് ഇത് അല്പം വ്യത്യസ്തമായ രീതിയിലും ചെയ്യാവുന്നതാണ് n ന്റെ മൂല്യം 1 നേക്കാൾ വലുതാണെന്ന് എടുത്താൽ 100n5 100n5n നേക്കാൾ ചെറുതാണെന്ന് കാണാം കാരണം n ന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം 1 ആയതിനാൽ 5n ഏറ്റവും കുറഞ്ഞത് 5 ആയിരിക്കും 100n5n നെ ചുരുക്കി 105n എന്നാക്കി മുൻപ് ചെയ്തതുപോലെ 105n 105n2 എന്ന് പറയാം ഇത് മുകളിൽ പറഞ്ഞ വസ്തുത സ്ഥാപിക്കാനുള്ള മറ്റൊരു രീതിയാണ് n0 യുടെ മൂല്യം 1 എന്നും c യുടേത് 105 എന്നുമാണ് എടുത്തത് കണക്ക് കൂട്ടലിന്റെ എളുപ്പമനുസരിച്ചു സൌകര്യപ്രദമായ മറ്റു നമ്പറുകളും എടുക്കാം n0 യുടെ ഒരു നിശ്ചിത പരിധിക്കു മുകളിൽ c times g t നേക്കാൾ വലുതാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കോൺസ്റ്റന്റ് ന് തുല്യമാവണം c യുടെ വില ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു അയഞ്ഞ ഉയർന്നപരിധി ആണ് ഇതേ കണക്ക് കൂട്ടൽ ഉപയോഗിച്ച് ഒരു കൃത്യമായ ഉയർന്നപരിധി കണ്ടുപിടിക്കാനും സാധ്യമാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് n2 നേക്കാൾ കുറവാണ് 100n എന്നാണ് കൂടാതെ ഇത് O ആണെന്നും പറയാൻ കഴിയും കാരണം ഈയൊരു point ൽ calculation നിർത്തുകയാണെങ്കിൽ നമ്മൾ ഈ stage ൽ എത്തുകയെ ഇല്ല 100n5 101n നേക്കാൾ ചെറുതാണെന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ n0 5 c 101 എന്നിങ്ങനെയാകുമ്പോൾ 100n5 O ആണെന്നും കാണാം അതുപോലെ 100n5 105n നേക്കാൾ ചെറുതാണെന്നും പറയാം അതിനാൽ n0 1 c 105 ആകുമ്പോൾ ഈ വസ്തുത സ്ഥാപിക്കപ്പെടുന്നു അടുത്ത ഉദാഹരണമായി 100n2 20n 5 എടുക്കാം ഇവിടെയും n 1 നേക്കാൾ വലുതാണെന്ന് സങ്കൽപ്പിക്കുന്നു n കൊണ്ട് ഗുണിക്കാൻ കഴിയുമെന്നും n ചെറുതാകുകയില്ലെന്നും നമുക്കറിയാം അതുകൊണ്ടു 20n നേക്കാൾ 20n2 ഉം 5 നേക്കാൾ 5n2 ഉം പ്രബലമായിരിക്കും അതിനാൽ 100n2 20n2 5n2 യഥാർത്ഥ ഫങ്ഷനായ 100n2 20n 5 നേക്കാൾ പ്രബലമായിരിക്കും 100n2 20n2 5n2 നെ ചുരുക്കി 125n2 എന്നാക്കാം അതായത് n0 1 c 125 ആയിരിക്കുമ്പോൾ 125n2 100n2 20n 5 നേക്കാൾ പ്രബലമാണെന്നു കാണാം ചുരുക്കത്തിൽ an2 bn c എന്ന പൊതുവായ ഫങ്ഷനെടുത്താൽ abcn2 അതിനെക്കാൾ പ്രബലമാണെന്നു മനസ്സിലാക്കാം പൊതുവായി പറയുമ്പോൾ an2 bn c തരത്തിലുള്ള ഒരു ഫങ്ഷന്റെ b c എന്നിങ്ങനെയുള്ള താഴ്ന്നഘടകങ്ങൾ അവഗണിക്കാവുന്നതാണ് കാരണം ഉയർന്ന ഘടകങ്ങൾ ക്കാണ് ബലമുള്ളത് അതിനാൽ ഏറ്റവും വലിയ എക്സ്പൊനെന്റ് ന്റെ മൂല്യം കണക്കിലെടുത്താൽ മതിയാകും ഈ ഉദാഹരണത്തിൽ n2 ആണ് ഏറ്റവും വലിയ ഘടകം അതുകൊണ്ടു ഇത് പൂർണമായും O ആണ് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എളുപ്പവഴിയാണ് തന്നിരിക്കുന്ന എക്സ്പ്രെഷൻ എല്ലാ കോയെഫിഷ്യന്റ് കളെയും ഒഴിവാക്കി ഏറ്റവും വലിയ എക്സ്പൊനന്റ് തെരഞ്ഞെടുക്കുക അതായിരിക്കും big O ഇനി നമുക്ക് വലുതല്ലാത്ത സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കാം ഉദാഹരണമായി n2 നേക്കാൾ വലുതാണ് n3 എന്നത് വ്യക്തമായ കാര്യമാണ് പക്ഷെ n2ന്റെ big O അല്ല n3 എന്ന് തെളിയിക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി n2ന്റെ big O ആണ് n3 എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ n n0 യെക്കാൾ വലുതോ തുല്യമോ ആകുന്ന എല്ലാ സന്ദർഭങ്ങളിലും n3 c തവണ n2 നെക്കാൾ ചെറുതോ തുല്യമോ ആകുന്നവിധത്തിൽ അതായത് n3 c n2 ഒരു n0 ഉണ്ടായിരിക്കണം ആദ്യമായി n c എന്ന് എടുത്താൽ n3 c n2 എന്ന എക്സ്പ്രഷന്റെ ഇടതുഭാഗവും വലതുഭാഗവും c3 ആകും എക്സ്പ്രെഷൻ c3 c3 ശരിയാകും അടുത്തതായി n c1 എന്നെടുത്താൽ എക്സ്പ്രഷന്റെ ഇടതുഭാഗം c1 3 ഉം വലതുഭാഗം cc1 2 ഉം ആയിരിക്കും അതായത് ഇടതുഭാഗം വലതുഭാഗത്തേക്കാൾ വലുതാണ് അതിനാൽ നമ്മൾ എന്ത് c തെരെഞ്ഞെടുത്താലും n c ആകുമ്പോൾ ആ അസമത്വം നിലനിൽക്കുന്നു അതിനാൽ n3 c n2 ആകുന്നതരത്തിൽ n ന് ഒരു മൂല്യവും നൽകാൻ സാധ്യമല്ല അതുകൊണ്ട് n3 n2 നേക്കാൾ വേഗത്തിൽ വലുതാവുന്നു എന്ന ആശയം ഔപചാരികമായി തെളിയുന്നു Big O യെക്കുറിച്ചുള്ള ഒരു ഉപയോഗപ്രദമായ വസ്തുത ഇതാണ് ഫങ്ഷൻ f1 O ഉം ഫങ്ഷൻ f2 O ഉം ആണെങ്കിൽ f1 f2 എന്നതിനെക്കാൾ വലുതായിരിക്കും maxg1 g2 ഒറ്റനോട്ടത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് f1 f2 എന്നതിനെക്കാൾ വലുതായിരിക്കും g1 g2 എന്നാൽ യഥാർത്ഥത്തിൽ ഇത് maxg1 g2 ആണ് ഇതെങ്ങനെ തെളിയിക്കും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിർവചനപ്രകാരം f1 O ആണെങ്കിൽ n1 നു മുകളിൽ c1തവണ g1 f1 നേക്കാൾ വലുതാവുന്ന തരത്തിൽ ഒരു n1 ഉണ്ട് അതുപോലെ തന്നെ f2 O ആണെങ്കിൽ n2 നു മുകളിൽ c2 തവണ g2 f2 നേക്കാൾ വലുതാവുന്ന തരത്തിൽ ഒരു n2 വും ഉണ്ടായിരിക്കും ഇനി നമ്മൾ n1 n2 എന്നിവയുടെ മാക്സിമം ആയി n3 യും c1 c2 എന്നിവയുടെ മാക്സിമം ആയി c3 യും തെരഞ്ഞെടുക്കുന്നു അടുത്തതായി n3 ക്കു മുകളിൽ എന്ത് സംഭവിക്കുന്നെന്ന് കാണാം n3 ക്കു മുകളിൽ ഈ രണ്ട് അസമത്വങ്ങളും പ്രാബല്യത്തിലാവുന്നു അതുകൊണ്ട് f1 f2 c1 g1 c2 g2 എന്ന് കിട്ടുന്നു കാരണം n1 നും n2 വിനും മുകളിൽ f1 c1 g1 ഉം f2 c2 g2 ഉം ആണ് ഇതുരണ്ടും കൂട്ടിയാൽ g1 g2 എന്നുകിട്ടും എന്നാൽ അല്പം സാമർഥ്യം ഉപയോഗിച്ചാൽ നമുക്ക് c3 ഉണ്ട് c1 c3 യെക്കാൾ ചെറുതാണ്കാരണം c3 മാക്സിമം ആണ് അതുപോലെ c2 c3 യെക്കാൾ ചെറുതാണ് ഇവ രണ്ടു ചേർത്തുവെച്ചാൽ ഇത് c3 g2 ക്കാൾ ചെറുതാണെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഇവയെയെല്ലാം കൂട്ടിച്ചേർത്തതിനാൽ നമുക്ക് അവ ഒരുമിച്ചെടുത്ത് f1 f2 c3g1 g2 എന്നുപറയാം പക്ഷെ g1 g2 എന്നതിനെ നമ്മൾ ഇവയുടെ മാക്സിമം എടുക്കുകയാണെങ്കിൽ 2 തവണ maxg1g2 എന്നെഴുതാം അതായത് f1 f2 c32 maxg1 g2 അഥവാ f1 f2 2 ഇപ്പോൾ നമ്മൾ n3 യെ n0 ആയും 2 c3 യെ c ആയും എടുത്താൽ n ന്റെ മൂല്യം n0 maxn1 n2 നേക്കാൾ അധികമാകുമ്പോൾ f1 f2 c maxg1g2 വിനേക്കാൾ അധികമാവുന്ന തരത്തിൽ c 2 maxc1c2 എന്ന ഒരു കോൺസ്റ്റന്റ് c ഉണ്ടെന്നുസ്ഥാപിക്കാൻ സാധിക്കുന്നു ഈ ഗണിതവസ്തുത എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമാവുക പലപ്പോഴും നമ്മൾ ഒരു അൽഗോരിതം വിശകലനം ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്ത ഫേസ് കളുണ്ടാകും ഒരു ഭാഗത്ത് അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും മറ്റൊരു ഭാഗത്ത് അത് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് തുടരും അതിനാൽ നമുക്ക് രണ്ടു ഫേസുകൾ എന്നെടുക്കാം OgA സമയം ആവശ്യമുള്ള ഫേസ് A യും OgB സമയം ആവശ്യമുള്ള ഫേസ് B യും അതിനാൽ ഇപ്പോൾ മൊത്തത്തിലുള്ള പ്രവർത്തന സമയത്തിനുള്ള മികച്ച പരിധി എന്താണ് എളുപ്പമായ കാര്യം gAgB എന്ന് പറയുക എന്നതാണ് എന്നാൽ ഈ ഫലം പറയുന്നത് gAgB അല്ല മറിച്ച് maxgAgB ആണ് കൂടുതൽ അനുയോജ്യമാകുക എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു അൽഗോരിതം വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മൾ അൽഗോരിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി പരമാവധി സമയം എടുക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് മൊത്തത്തിലുള്ള പ്രവർത്തന സമയം നിർണ്ണയിക്കും അതിനാൽ ഒരു അൽഗോരിതത്തിലെ ലൂപ്പുള്ള ഒരു ഫംഗ്ഷൻ നോക്കുമ്പോൾ നമ്മൾ സാധാരണയായി ലൂപ്പ് എത്രനേരം പോകുന്നുവെന്ന് നോക്കും ലൂപ്പിനു മുൻപുള്ള ഇനിഷ്യലൈസേഷനുകൾ ലൂപ്പിനു താഴെയുള്ള ചില പ്രിന്റുസ്റ്റേറ്റ്മെന്റ്കൾ എന്നിവ അവഗണിക്കാം കാരണം അവ അൽഗോരിതത്തിന്റെ സങ്കീർണ്ണതയെ ബാധിക്കുന്നവയല്ല അതായത് വിവിധ ഫേസുകളുള്ള ഒരു അൽഗോരിതത്തിന്റെ ഏറ്റവും കാര്യക്ഷമമല്ലാത്ത ഫേസ് ആയിരിക്കും ആ അൽഗോരിതത്തിന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന വലിയ ഘടകം ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഗണിതവസ്തുതയുടെ പ്രധാന ഫലം ഉയർന്നപരിധി എന്നതുപോലെ താഴ്ന്ന പരിധി എന്നൊരു സങ്കൽപ്പവുമുണ്ട് t എല്ലായ്പ്പോഴും c g നേക്കാളും താഴെയായിരിക്കും എന്നു പറഞ്ഞതുപോലെ t എല്ലായ്പ്പോഴും c gന് മുകളിലായിരിക്കും എന്നും നമ്മൾ പറഞ്ഞേക്കാം ഒമേഗ എന്ന നൊട്ടേഷൻ ഉപയോഗിച്ചാണ് ഇത് വിവരിക്കുന്നത് അതിനാൽ ഇത് n n0യെക്കാൾ വലുതാകുമ്പോൾ t c g നേക്കാൾ വലുതാണെങ്കിൽ t Ωg ആണ് എന്നുപറയുന്ന ഒരു നിർവചനം മാത്രമാണ് ഈ ഗ്രാഫിന്റെ ആദ്യഭാഗത്തിൽ നമുക്ക് താത്പര്യമില്ല ഈ ഭാഗത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ n0 ക്കു മുകളിൽ t മുകളിലാണ് അതുകൊണ്ട് t എപ്പോഴും c gന് മുകളിലായിരിക്കും n3 O അല്ലെന്ന് നമ്മൾ നേരത്തെ കണ്ടു പക്ഷേ അവബോധപരമായി n3 n2ന് മുകളിലായിരിക്കണം ഇത് തീർച്ചയായും സംഭവിക്കും കാരണം n 1നേക്കാൾ കൂടുതലോ തുല്യമോ ആകുമ്പോൾ n3 n2 നേക്കാൾ കൂടുതലോ തുല്യമോ ആണ് അതിനാൽ n1 ആകുമ്പോൾ n3ഉം n2ഉം തുല്യമാണ് എന്നാൽ n2 ആകുമ്പോൾ n3 8 ആയിരിക്കും n2 4 ആയിരിക്കും അതിനാൽ n0ക്ക് 0 അഥവാ1 cക്ക് 1 എന്നിങ്ങനെ വിലകൾ നൽകിയാൽ നമുക്ക് ഇത് സ്ഥാപിക്കാം ഇപ്പോൾ നമ്മൾ ഒരു പരിധി നിശ്ചയിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള അൽഗോരിത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു ഈ അൽഗോരിതത്തിന്റെ ഉയർന്ന പരിധി എത്രയാണെന്ന് പറയുന്നു അതിനാൽ ഇത്ര സമയം കൊണ്ട് അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു അൽഗോരിതത്തിന്റെ താഴ്ന്ന പരിധികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു നിർദ്ദിഷ്ട അൽഗോരിതം ചർച്ചചെയ്യുന്നത് അത്ര ഉപയോഗപ്രദമല്ല ഈ അൽഗോരിതം കുറഞ്ഞത് ഇത്രയധികം സമയമെടുക്കുന്നുവെന്ന് പറയുന്നത് പ്രയോജനമില്ലാത്തതാണ് ഓരോ പ്രോബ്ലെത്തിനും കുറഞ്ഞ ഒരു സമയം ആവശ്യമുണ്ട് നിങ്ങൾ അൽഗോരിതം എങ്ങനെ എഴുതിയാലും അത് കുറഞ്ഞത് ആ സമയമെടുക്കും ഒരു പ്രോബ്ലം നിങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചാലും അതിന് ഒരു നിശ്ചിത സമയം എടുക്കും അതിനാൽ അൽഗോരിതത്തിന്റെ താഴ്ന്ന പരിധി എന്നതിനേക്കാൾ പ്രോബ്ലെത്തിന്റെ താഴ്ന്നപരിധി എന്ന് പറയുന്നതാണ് ഉചിതം നിങ്ങൾ സങ്കൽപ്പിച്ചതുപോലെ ഇത് പറയാൻ വളരെ സങ്കീർണ്ണമാണ് കാരണം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നത് നിങ്ങൾ എത്ര ബുദ്ധിമാനാണെങ്കിലും ഒരു അൽഗോരിതം നിങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്താലും ഒരു നിർദ്ദിഷ്ട മാർഗത്തേക്കാൾ മികച്ചത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് സമയം 1313 കാണുക എനിക്ക് ഇത് ചെയ്യാൻ ഒരു നിർദ്ദിഷ്ട മാർഗമുണ്ടെന്നും അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിശകലനം ചെയ്യുന്നുണ്ടെന്നും പറയുന്നതിനേക്കാൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ താഴ്ന്നപരിധികൾ സ്ഥാപിക്കുന്നത് പലപ്പോഴും വളരെ ശ്രമകരമാണ് താഴ്ന്നപരിധികൾ സ്ഥാപിച്ച മേഖലകളിലൊന്ന് സോർട്ടിങ് ആണ് അതിനാൽ സോർട്ട് ചെയ്യൂന്നതിന് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്ന രീതി ആശ്രയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറഞ്ഞത് n log n താരതമ്യങ്ങൾ ചെയ്യണം സോർട്ടിംഗ് അൽഗോരിതം ഉപയോഗിച്ച് നിങ്ങൾ എത്ര ബുദ്ധിപരമായ അൽഗോരിതം ഉപയോഗിച്ചാലും ഘടകങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് n log n നേക്കാൾ വേഗത്തിലാകാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് പരസ്പരം പൊരുത്തമുള്ള ഉയർന്നപരിധിയും താഴ്ന്നപരിധിയുമുള്ള ഒരു സാഹചര്യമുണ്ട് അതിനാൽ Og ῼg ആണെങ്കിൽ t എന്നത് Θg ആണെന്ന് നമുക്ക് പറയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനുയോജ്യമായ കോൺസ്റ്റന്റ്കളുണ്ടെങ്കിൽ g ന് t നെക്കാൾ വലുതാകാൻ കഴിയും മാത്രമല്ല ഇത് തീർച്ചയായും രണ്ട് വ്യത്യസ്ത കോൺസ്റ്റന്റ്കൾക്ക് g ന് മുകളിലാണ് അതിനാൽ ഇത് ശരിക്കും അർത്ഥമാക്കുന്നത് t g എന്നിവ അടിസ്ഥാനപരമായി ഒരേ അളവിലുള്ളവയാണ് അവ അടിസ്ഥാനപരമായി ഒരേ ഫങ്ഷനാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനുകൂലമായ മൂല്യമാണ് അതിനാൽ ഒരു ഉദാഹരണമായി നമുക്ക് n2 Θ ആണെന്ന് പറയാൻ കഴിയും ഇതുപോലൊന്ന് തെളിയിക്കാൻ c തവണ n2 ഇതിനേക്കാൾ വലുതാവുന്നതരത്തിലുള്ള ഒരു ഉയർന്നപരിധിയും റഫർ സമയം 1437 c തവണ n2 ഇതിനേക്കാൾ ചെറുതാവുന്ന തരത്തിലുള്ള ഒരു താഴ്ന്നപരിധിയും റഫർ സമയം 1441 ലഭിക്കുന്നവിധം ഒരു കോൺസ്റ്റന്റ് c കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിനാൽ ഉയർന്നപരിധിക്കായി നമ്മൾ n 2 വികസിപ്പിക്കുമ്പോൾ ആദ്യ ടേം n22 ഉം തുടർന്ന് n2 ഉം ലഭിക്കും ഇപ്പോൾ ഇത് n22 n2 ന്റെ ഉയർന്നപരിധി ആയതിനാൽ n2 നെ അവഗണിക്കുകയാണെങ്കിൽ ഇത് n22 നേക്കാൾ കുറവായിരിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു മുകളിലെ പരിധി ഉണ്ട് 12 എന്ന കോൺസ്റ്റന്റ് പരിഗണിച്ചാൽ n0 ആകുമ്പോൾ ഇത് n2 നേക്കാൾ വലുതാവുന്നു മറുവശത്ത് എനിക്ക് താഴ്ന്നപരിധി കാണണമെങ്കിൽ നമ്മുടെ n നെ വിപുലീകരിക്കണം അതിനായി ഇത് കൂടുതൽ ചെറുതാക്കണം ഞാൻ n2 അല്ല n2 തവണ n2 ആണ് കുറയ്ക്കുന്നത് അതിനാൽ ഇതിനെക്കാൾ വലുതായിരിക്കും കാരണം ഞാൻ കുറയ്ക്കുന്നത് കൂടുതലാണ് n2 n2 n22 n2 നേക്കാൾ വലുതായിരിക്കും പക്ഷേ n2n2 n24 ആണ് അതിനാൽ എനിക്ക് n22 n24 ന്റെ ഫലം n24 കിട്ടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ n2 n24 നേക്കാൾ വലുതോ തുല്യമോ ആണ് എന്നാൽ ഇപ്പോൾ n2 വർദ്ധിക്കുന്നുവെന്ന് ന്യായീകരിക്കുന്നതിന് n കുറഞ്ഞത് 2 ആയിരിക്കണം കാരണം n 2നെക്കാൾ ചെറുതാണെങ്കിൽ ഇത് ഭിന്നസംഖ്യയാണ് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ഇവിടെ എനിക്ക് 2 നെക്കാൾ വലുതോ തുല്യമോ ആയ വ്യത്യസ്ത n ഉണ്ട് ഞാൻ ഒരു താഴ്ന്നപരിധിയുള്ള ഫലം സ്ഥാപിച്ചു അതായത് n നെ 2 നേക്കാൾ വലുതോ തുല്യമോ ആണെങ്കിൽ n2 n24 ന് മുകളിലാണ് അതിനാൽ ഇപ്പോൾ 2 നെക്കാൾ വലുതായ എല്ലാ മൂല്യങ്ങൾക്കും 2 എന്ന കോൺസ്റ്റന്റ് തിരഞ്ഞെടുത്താൽ n2 n22 നേക്കാൾ കുറവാണ് n2 n24 നേക്കാൾ വലുതാണ് അതിനാൽ നമ്മൾ കണ്ടെത്തിയ ഉയർന്നതും താഴ്ന്നതുമായ പരിധികൾ n2 Θ ആണെന്ന് കാണിക്കുന്നു ചുരുക്കത്തിൽ big O ഉപയോഗിക്കുമ്പോൾ ഒരു ഉയർന്ന പരിധി നമ്മൾ കണ്ടെത്തി f Og ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം g f നേക്കാൾ വലുതാണ് എന്നാണ് അതിനാൽ f g നേക്കാൾ വലുതല്ല ഏറ്റവും മോശം പ്രവർത്തനസമയ ത്തിന്റെ പരിധി വിവരിക്കാൻ ഇത് ഉപയോഗപ്രദമാണ് ഏറ്റവും മോശമായ പ്രവർത്തന സമയം g കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം മറുവശത്ത് നമ്മൾ ഒമേഗ ഉപയോഗിക്കുകയാണെങ്കിൽ f കുറഞ്ഞത് g ആണെന്നും g താഴ്ന്നപരിധിയാണെന്നും പറയുന്നു നമ്മൾ വിവരിച്ചതുപോലെ വ്യക്തിഗത അൽഗോരിതങ്ങൾക്ക് പകരം ഇത് മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ് അത് നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെങ്ങനെയെന്നത് പറയുന്നു നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു നിശ്ചിതസമയം ചെലവഴിക്കേണ്ടിവരും പക്ഷേ ഇത് സ്ഥാപിക്കാൻ പ്രയാസമാണ് ഒരു പ്രശ്നത്തിന് താഴ്ന്നപരിധി സ്ഥാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പർ ബൌണ്ടിന്റെ അതേ പരിധി നേടുന്ന ഒരു അൽഗോരിതം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച അൽഗോരിതം നിങ്ങൾ കണ്ടെത്തിയെന്ന് പറയാം കാരണം നിങ്ങൾക്ക് g നേക്കാൾ മികച്ചത് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് gന്റെ താഴ്ന്നപരിധി ഉണ്ട് അത് നമ്മൾ നേടി കാരണം നിങ്ങളുടെ അൽഗോരിതം Og ആയി കാണിച്ചിരിക്കുന്നു അതിനാൽ സാധ്യമായത്ര കാര്യക്ഷമമായ ഒരു അൽഗോരിതം നമ്മൾ കണ്ടെത്തിയെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് തീറ്റ